സെൽ കൾച്ചർ ലക്ച്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം കോശങ്ങളെ വേർതിരിക്കാനുള്ള മൂന്ന് രീതികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഇമ്മ്യൂണോ പാനിംങ് ഫ്ലൂറോസെന്റ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടിങ് എന്നിവയെക്കുറിച്ച് നാം ചർച്ച ചെയ്തുകഴിഞ്ഞു മോട്ടോർ ന്യൂറോൺ സെല്ലുകളുടെ ഇമ്മ്യൂണോ പാനിംങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിട്ടു പോയ ഒരു ടെക്നിക്നെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് വെൻട്രൽ ഹോണിൽ കാണപ്പെടുന്ന എംബ്രിയോണിക് മോട്ടോർന്യൂറോൺ കോശങ്ങളെ കുറിച്ച് ആ ചിത്രത്തിൽ ഞാൻ കാണിച്ചിരുന്നു അതിലേക്ക് ഞാൻ തിരിച്ചു പോകുകയാണ് വെൻട്രൽ ഹോൺ മോട്ടോർന്യൂറോൺ കോശങ്ങൾ രണ്ടു തരത്തിൽ കാണപ്പെടുന്നു വലിപ്പം കൂടുതലുള്ള കോശങ്ങളും വലിപ്പം കുറഞ്ഞവയും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നുവെച്ചാൽ വെൻട്രൽ ഹോൺ മോട്ടോർന്യൂറോൺസിലെ വലിയ മോട്ടോർ ന്യൂറോൺ കോശങ്ങൾ ഭ്രൂണാവസ്ഥയിൽ പതിനാലാം ദിവസം അവയുടെ ബാഹ്യഉപരിതലത്തിൽ പ്രത്യേക ആൻറിബോഡികളെ പ്രകടിപ്പിക്കുന്നു കോശങ്ങൾ ഇതുപോലുള്ള ചിലതാണ് പ്രകടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഏഴാമത്തെ ആഴ്ചയിലെ ലെക്ചർ 2 ൽ ആണ് ഉദാഹരണത്തിന് ഇതാണ് സുഷുമ്ന നട്ടെല്ല് ഇത് വെൻട്രൽ ഹോണും ഇവിടെ നിറം കൊടുത്തിരിക്കുന്ന ഭാഗമാണ് വെൻട്രൽ ഹോൺ ഇതാണ് ഡോർസെൽ ഹോൺ ഭ്രൂണാവസ്ഥ E0 മുതൽ E22 വരെയാണെന്ന് കണക്കാക്കിയാൽ ക്ഷമിക്കണം E 11 നെ ഭ്രൂണാവസ്ഥ എന്നുപറയാം E 14 E 15 വരെ ഭ്രൂണം എന്ന് വിളിക്കാം എന്നാൽ E 15ന് ശേഷം ഫീറ്റസ് എന്നാണ് പറയേണ്ടത് E15 ശേഷം F I F 18 എന്നിങ്ങനെ വിശേഷിപ്പിക്കാം ഫീറ്റസ് എന്ന് വിളിക്കാൻ കാരണം ആ സമയം ആകുമ്പോഴേക്കും ശരീരഘടനയിലെ എല്ലാ അവയവങ്ങളും പൂർണമായി രൂപപ്പെട്ടിട്ടുണ്ടാകും ശരീരഘടന പൂർണമായി രൂപപ്പെടുന്നതിനു മുൻപ് കോശങ്ങളെ ഓരോന്നായി തിരിച്ചറിയാനാവില്ല എംബ്രിയോണിക് മോട്ടോർന്യൂറോൺ കോശങ്ങളെ വേർതിരിച്ചെടുക്കുന്നതിലേക്ക് തിരിച്ചുവരാം പുതിയ രീതികൾ ഉപയോഗിച്ച് എങ്ങനെ കോശങ്ങൾ വേർതിരിച്ചെടുക്കാം എന്ന് നോക്കാം ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ഇമ്മ്യൂണോ പാനിംങ് ഫ്ലൂറോസെന്റ് അസ്സിസ്റ്റഡ് സെൽ സോർട്ടിങ് എന്നിവയെ കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു ഈ മോട്ടോർന്യൂറോൺ കോശങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ മറ്റു പല തരത്തിലുള്ള കോശങ്ങളും ഇവിടെ ഉണ്ടാകും അപ്പോൾ E14 ലെ മോട്ടോർന്യൂറോൺ കോശങ്ങളുടെ സവിശേഷത എന്താണ് ഈ കോശങ്ങൾ E14 ൽ വളരെ പ്രത്യേകമായ ഒരു മാർക്കർ പ്രകടിപ്പിക്കുന്നു മറ്റു കോശങ്ങളിൽ ഈ മാർക്കർ കാണാൻ സാധിക്കില്ല ഞാനിവിടെ പച്ചനിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മാർക്കർ E14 ആകുമ്പോൾ കോശങ്ങൾ ഈ മാർക്കർ പ്രകടിപ്പിക്കാൻ തുടങ്ങും സമയം മുന്നിലേക്ക് പോകുമ്പോൾ അതായത് F 18 16 17 ഒക്കെ ആകുമ്പോൾ കോശങ്ങളുടെ ഉപരിതലത്തിൽ പൂർണമായും ഈ മാർക്കർ പ്രകടമായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇത് എടുത്തു പറയാൻ കാരണം കാരണം ഇത് പ്രാധാന്യമർഹിക്കുന്നു എന്തെന്നാൽ ഏതൊരു ടിഷ്യുവിന്റെയും രൂപപ്പെടലിന്റെ മാതൃക ശരിയായി മനസ്സിലാകാതെ കോശങ്ങൾ വേർതിരിക്കുന്നതിലേക്ക് കടക്കാനാവില്ല ആദ്യമായി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണം നമ്മൾ ഉപയോഗിക്കുന്ന കോശങ്ങളിൽ പ്രത്യേകമായ മാർക്കർ ഉണ്ട് അതുപോലെ അതുമായി ബന്ധിക്കുന്ന പ്രത്യേക ആൻറി ബോഡിയും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് E15 കോശങ്ങൾ പിന്തുടരുന്ന മാതൃക മനസ്സിലാക്കിയ ഒരാൾ അത് E18 കോശങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാൽ കാര്യങ്ങൾ ശരിയായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കോശങ്ങളെ വേർതിരിക്കൽ ചെയ്യും മുമ്പ് ആ മേഖലയിലെ ലിറ്ററേച്ചർ നന്നായി വായിക്കുകയും ഈ മേഖലയിൽ വന്നിട്ടുള്ള വികസനത്തെ കുറിച്ചും മറ്റുള്ളവർ ഈ മേഖലയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കുകയും വേണം നമ്മൾ എവിടെയാണ് ഏതു തലത്തിലേക്കാണ് നീങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായി ധാരണ ഉണ്ടാവണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഈ രീതികൾ വളരെ അനായാസമായി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനാകും ഇത്രയും പറഞ്ഞ് ഞാൻ കോശങ്ങളെ വേർതിരിക്കുന്ന ഭാഗത്തുനിന്ന് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് കൾച്ചർ ഡിഷിൽ കോശങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് കോശങ്ങൾ അവയുടെ രൂപം മാത്രം നിലനിർത്തിയാൽ പോര പരമാവധി അവയുടെ പ്രവർത്തനവും നിലനിർത്തണം ഉദാഹരണത്തിന് ഞാൻ ഇൻസുലിൻ ഉല്പാദിപ്പിക്കുന്ന കോശങ്ങളെയാണ് വളർത്തുന്നത് എന്ന് കരുതുക ശരീരത്തിൽ ഈ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന അതേ അളവിൽ തീവ്രതയിൽ കൾച്ചർ ഡിഷിലെ കോശങ്ങൾ ഇൻസുലിൻ ഉൽപാദിപ്പിക്കണമെന്നില്ല എന്നാൽ ശരീരത്തിൽ ഉൽപാദിപ്പിക്കുന്നതിന്റെ 50 ശതമാനം അല്ലെങ്കിൽ 10 ശതമാനം 5 ശതമാനം അതുമല്ലെങ്കിൽ 2 ശതമാനമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് അതിൻറെ പ്രവർത്തനം നിലനിർത്തണം അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ നാഡീകോശങ്ങളെയാണ് വളർത്തുന്നത് എന്ന് കരുതുക അപ്പോൾ എന്താണ് നാഡീകോശങ്ങളുടെ ജോലി ഇലക്ട്രിക്കലി സജീവമായ കോശങ്ങളാണ് അവ ഇലക്ട്രിക്കലി ആക്റ്റീവ് എന്നുവെച്ചാൽ അവ ആക്ഷൻ പൊട്ടൻഷ്യൽ സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ കൾച്ചർ ഡിഷിൽ x y z സ്റ്റം സെൽസിൽ നിന്നും വേർതിരിച്ച നാഡീകോശങ്ങൾ ആണ് വളർത്തുന്നത് എന്ന് കരുതുക അവ ഇലക്ട്രിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ടിഷ്യുകൾച്ചറിന്റെ ലോകത്തേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ അടിസ്ഥാനമായ ആശയങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം നിർണായകമായ ഒരു ചോദ്യം ഇതാണ് നാഡീകോശങ്ങളെ ആസ്പദമാക്കി പറയാം നിങ്ങൾ പുനരുജ്ജീവിപ്പിച്ച ഈ കോശങ്ങൾ ശരീരത്തിലെ യഥാർത്ഥ പരിസ്ഥിതിയിൽ ആയിരിക്കുമ്പോൾ ഉള്ള അതേ രൂപം ടിഷ്യു കൾച്ചറിലും നിലനിർത്തുന്നുണ്ടോ യഥാർത്ഥ പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് പറയാനുള്ളത് ആവർത്തിക്കാം നമ്മൾ ഇവിടെ പുനരുജ്ജീവിപ്പിച്ച കോശങ്ങൾ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ മറ്റേത് കോശങ്ങളും ആയിക്കൊള്ളട്ടെ അവ യഥാർത്ഥത്തിൽ ശരീരത്തിനകത്ത് ആയിരിക്കുമ്പോൾ ഉള്ള രൂപഘടന പൂർണമായും നിലനിർത്തുന്നുണ്ടോ അതുമല്ലെങ്കിൽ യഥാർത്ഥ രൂപത്തോട് പരമാവധി സാദൃശ്യം പുലർത്തുന്നുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ എന്താണ് ഫീനോടൈപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാനിപ്പോൾ നാഡി കോശത്തെ കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ കോശത്തിന് ഒരു നാഡീകോശം ആയി പ്രവർത്തിക്കാൻ ആവശ്യമായ ആക്സോൺ ഡെന്ഡ്രൈടിക് ട്രീ അവശ്യ അയോൺ ചാനൽസ് എന്നിവ ഉണ്ടായിരിക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ മറ്റൊരുതരത്തിൽ പറഞ്ഞാൽ ഈ കോശങ്ങൾക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ സൃഷ്ടിക്കാൻ സാധിക്കണം അതുപോലെ ഇൻസുലിൻ ഉല്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് വളർത്തുന്നത് എങ്കിൽ പുനരുജ്ജീവിപ്പിച്ച ഈ കോശങ്ങൾ ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം അതിനായി ഏതെങ്കിലും തരത്തിലുള്ള ടൈറ്ററേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഞാൻ ഫീനോടൈപ്പ് കൂടാതെ മറ്റൊരു കാര്യം കൂടി പരിചയപ്പെടുത്തി കോശങ്ങളുടെ പ്രവർത്തനം അതായത് കോശങ്ങളുടെ രൂപവും പ്രവർത്തനവും ഈ രണ്ടു മാനദണ്ഡങ്ങളും സെൽ കൾച്ചർ ഡിഷിന് അകത്ത് കോശങ്ങൾ നിലനിർത്തുമോ നിലനിർത്തിയില്ലെങ്കിൽ ഉദ്ദേശ്യം സാധ്യമാവില്ല ഇതുവരെ നാഡീകോശങ്ങളെയാണ് നാം ഉദാഹരണമായി പറഞ്ഞത് ഇനി വ്യത്യസ്തമായ ഒരു വിഭാഗം കോശത്തെ എടുക്കാം ഇനി ഞാൻ കാർഡിയോമയോസൈറ്റിനെയാണ് വളർത്തുന്നത് എന്ന് കരുതുക എൻറെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആ കോശങ്ങൾ മിടിക്കുന്നുണ്ടോ അവ ഇതുപോലെ ചുരുങ്ങുന്നുണ്ടോ ഇല്ലായെങ്കിൽ ആ കോശങ്ങൾ അവയുടെ ഫീനോടൈപ്പും പ്രവർത്തനവും ശരിയായ രീതിയിൽ നിലനിർത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയിക്കേണ്ടി വരും ഫീനോടൈപ്പ് നിലനിർത്തിയേക്കാം എന്നാൽ പ്രവർത്തനം നിലനിർത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ പേശി കോശങ്ങളെയാണ് വളർത്തുന്നത് എന്ന് കരുതുക അസ്ഥിപേശി കോശങ്ങളെയാണ് വളർത്തുന്നത് എങ്കിൽ എന്തായിരിക്കും ആദ്യത്തെ ചോദ്യം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ പ്രവർത്തനങ്ങൾ ഉള്ളവയാണ് ഈ കോശങ്ങൾ അപ്പോൾ നമുക്കിവിടെ പേശി കോശങ്ങളെ ഉദാഹരണമായി എടുക്കാം നമ്മൾ ഇവിടെ അസ്ഥിപേശി കോശങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആദ്യം അസ്ഥിപേശി കോശങ്ങളെ ഉദാഹരണമായി എടുക്കാം അസ്ഥിപേശി കോശങ്ങളെ രണ്ട് വ്യത്യസ്ത ഉറവിടങ്ങളിൽ നിന്ന് കൾച്ചർ ചെയ്യാനായി എടുക്കാവുന്നതാണ് ഒരു ഉറവിടം F 18 റാറ്റ് ഫീറ്റസ് അല്ലെങ്കിൽ E 18 മൌസ് ഫീറ്റസ് അത് F 20 വരെയാകാം അതിലും വളർച്ചയെത്തിയ ടിഷ്യു ഉപയോഗിക്കരുത് എന്തെന്നാൽ ഏകകോശങ്ങളെ വേർതിരിക്കുക പ്രയാസമേറിയതാകും രണ്ടാമത്തെ ഉറവിടം പൂർണ വളർച്ച എത്തിയ റാറ്റ് അല്ലെങ്കിൽ മൌസിന്റെ പുറകിലെ കാലുകളിൽ നിന്ന് വേർതിരിച്ച സാറ്റലൈറ്റ് കോശങ്ങൾ ആണ് ഇവിടെ പുറകിലെ കാലുകൾ തന്നെ പറയാൻ കാരണം അവിടെനിന്ന് ആവശ്യത്തിന് ടിഷ്യു ലഭ്യമാകും എന്നതിനാലാണ് ഫീറ്റസിൽ നിന്ന് ലഭിക്കുന്ന ടിഷ്യു ഇങ്ങനെയായിരിക്കും പൂർണ്ണവളർച്ചയെത്തിയ ജീവിയാണെങ്കിൽ ഇതാണ് തല ഇവിടെ പുറകിലെ കാലുകൾ കാണാം ഭൂരിഭാഗം ടിഷ്യുകളും ഇവിടെ നിന്നാണ് ശേഖരിക്കുക സാറ്റലൈറ്റ് കോശങ്ങൾ പുറകിലെ കാലുകളിൽ താഴെയായി ഇങ്ങനെയാണ് ഇരിക്കുക ഇവിടെനിന്ന് സാറ്റലൈറ്റ് കോശങ്ങളെ ശേഖരിക്കാം അസ്ഥിപേശി കോശങ്ങളായി മാറുന്ന സ്റ്റം കോശങ്ങൾ ആണ് സാറ്റലൈറ്റ് കോശങ്ങൾ ഇവിടെനിന്ന് ഈ സാറ്റലൈറ്റ് കോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ എൻസൈം അല്ലെങ്കിൽ യാന്ത്രികമായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഇതാണ് അടുത്ത പടി ഈ കോശങ്ങളെ തരംതിരിച്ച് എടുക്കലാണ് അതിനായി FACS ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഇമ്മ്യൂൺ മാർക്കർ ഇവയിൽ ഏതെങ്കിലും പ്രയോജനപ്പെടുത്താം അതിനുശേഷം ഈ കോശങ്ങളെ വളർത്തിയെടുക്കണം ഇത് ഒരു നീണ്ട പ്രക്രിയയാണ് മുതിർന്ന സാറ്റലൈറ്റ് കോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങളെ വളർത്തിയെടുക്കുക അത്ര എളുപ്പത്തിൽ വിജയം കാണാവുന്ന കാര്യമല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് നമ്മൾ സാറ്റലൈറ്റ് കോശങ്ങൾ ഉപയോഗിച്ചതെന്ന് അതിന് ചില കാരണങ്ങളുണ്ട് മറ്റു തരം കോശങ്ങൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അസ്ഥിപേശി കോശങ്ങൾ എങ്ങനെയാണ് വളരുക അവ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇവയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ ഇവിടെ നിന്ന് തുടരാം എങ്ങനെയാണ് ഈ കോശങ്ങളെ വേർതിരിക്കുന്നത് എന്താണ് അവയുടെ രൂപം ഒപ്പം പ്രവർത്തനം എന്നിവയെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാം